ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം

ഐഐടി കാൺപൂരിലെ എൻപിടിഇഎൽ മൂക്ക് വഴിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത് നമ്മൾ നാലാം ആഴ്ചയിലാണ് മൊഡ്യൂൾ 6 ഇത് ഈ ആഴ്ചയിലെ അവസാന മൊഡ്യൂളാണ് തുടർന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊത്തം പ്രഭാഷണങ്ങളുടെ എണ്ണത്തിൽ ഇത് 24 ാമത്തെ പ്രഭാഷണമാണ് ഇത് കോഴ്സിന്റെ പകുതി അവസാനിക്കാൻ പോകുന്നു എന്ന വസ്തുതയ്ക്ക് തുല്യമാണ് ഒന്ന് കോഴ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് പുനർമൂല്യനിർണ്ണയം നടത്താനുള്ള സമയമാണിത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കുന്നു നിർദ്ദേശങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണോ എന്നത് കോഴ്സിൽ നൽകി ഇപ്പോൾ പതിവുപോലെ ഞാൻ യഥാർത്ഥത്തിൽ വിഷയത്തിലേക്ക് പോകുന്നതിനുമുമ്പ് ഞങ്ങൾ ഒരു ദ്രുത ഹൈലൈറ്റുകൾ നേടാൻ ശ്രമിക്കും മുമ്പത്തെതിൽ ഞാൻ ചെയ്തതിൽ നിന്ന് ഇതിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ടെലിഫോണിലെ നമ്മുടെ ചർച്ച ഞാൻ അവസാനിപ്പിക്കും ആശയവിനിമയവും ഈ പ്രഭാഷണവും ഞാൻ അവശ്യ ടെലിഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അടിസ്ഥാനപരവും വിപുലവുമായ കഴിവുകൾക്ക് സമാനമാണ് കഴിവുകൾ പ്രൊഫഷണൽ തലത്തിൽ വിപുലമായവ ആവശ്യമാണെങ്കിലും അത്യാവശ്യമായവ ആവശ്യമാണ് നിങ്ങൾ അടിസ്ഥാന തലത്തിലായാലും ഉന്നത തലത്തിലായാലും മുൻ പ്രഭാഷണത്തിൽ നൂതന ടെലിഫോണിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ ഉപസംഹരിച്ചു അതിനാൽ മൊത്തത്തിൽ ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചത് ഫലപ്രാപ്തിയ്ക്ക് ആശയവിനിമയത്തിൽ വ്യക്തത ആവശ്യമാണ് എന്നാണ് ഒപ്പം സജീവമായ ശ്രവണവും ആശയവിനിമയത്തിലെ വ്യക്തതയിൽ ഞാൻ പ്രത്യേകിച്ചും ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്യണം എന്നാണ് സമാനമായ ശബ്ദമുള്ളതും എന്നാൽ ഉച്ചരിക്കപ്പെടേണ്ടതുമായ വാക്കുകൾ വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയും വ്യക്തമായും വ്യത്യസ്തമായും അതിനാൽ തവളകളായി കേൾക്കുന്ന ഒരു തവളയ്ക്ക് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ നൽകി അതിനാൽ യഥാർത്ഥ മൃഗ തവളകളെ കൊണ്ടുവരുന്നതിനുപകരം തവളകൾ കുട്ടികൾ ധരിക്കേണ്ട സർക്കാരിനെ അയച്ചു ഒരു ലാപ്ടോപ്പ് വ്യക്തമായി പരാമർശിച്ചിട്ടില്ല അതിനാൽ ഇത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ലാപ്ടോപ്പ് വേണമെന്ന് കേട്ടിരുന്നു എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു കേട്ടത് ലാപ്ടോപ്പായിരുന്നു അതിനാൽ പ്രത്യേകിച്ചും നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കണം ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൾ സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ കുറിപ്പുകൾ എടുക്കുകയും തുടർന്ന് എപ്പോൾ എടുക്കുകയും ചെയ്യുന്നു കുറിപ്പുകൾ വ്യക്തമാകുകയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് ആവർത്തിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക അത് ആവർത്തിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങൾ വളരെയധികം ഫോൺ കോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിരവധി ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹോട്ട് സീറ്റിൽ പ്രത്യേകിച്ച് ഒരേസമയം പിടിക്കാൻ ഫോൺ വിളിക്കുന്നു അവിടെ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ അവയെ പിടിച്ചുനിർത്താൻ കഴിയുന്ന ചില ഘട്ടങ്ങൾ ഞങ്ങൾ വീണ്ടും നോക്കി ആരംഭിക്കുക തുടരുക തുടർന്ന് അവസാനിപ്പിക്കുക ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ സ്വയം സംഘടിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യണമെന്നും ഞാൻ നിർദ്ദേശിച്ചു നിങ്ങളുടെ മേശയും തുടർന്ന് നിങ്ങൾ ഉപകരണങ്ങളും ടെലിഫോൺ ഉപകരണങ്ങളും അറിയേണ്ടതുണ്ട് ഉപയോഗിക്കുക മൊത്തത്തിൽ ഫോൺ കോളുകൾ ശരിയായി ചെയ്യുന്നതിനുള്ള ചില മാനദണ്ഡങ്ങളെക്കുറിച്ചും പിന്നെ എങ്ങനെ എന്നതിനെക്കുറിച്ചും ഞാൻ സംസാരിച്ചു നിങ്ങൾ ഒരു കോൾ അവസാനിപ്പിക്കണം അതിലും പ്രധാനമായി ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ പ്രൊഫഷണലായോ വ്യക്തിപരമായോ നിങ്ങൾ ഇതുപോലുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫോർമാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആർക്കാണ് സന്ദേശം വന്നത് തീയതി സമയം തുടർന്ന് കോൺടാക്റ്റ് നമ്പർ മുതലായവ സ്ക്രിബ്ലിംഗ് എഴുതുന്നതിനുപകരം ഇത് ഉപയോഗപ്രദമാണ് അതിനാൽ നിങ്ങൾക്ക് ശൂന്യസ്ഥാനങ്ങൾ പൂരിപ്പിക്കാം എന്നാൽ ടെലിഫോൺ കോളുകൾ സാധാരണയായി നിസ്സാരമാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചു കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് തുടർന്ന് ഒരു തയ്യാറെടുപ്പുമില്ലാതെ നമുക്ക് സംസാരിക്കാം എന്നാൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ തലത്തിലെത്തുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു മോശം വാർത്തകൾ നൽകുന്നത് പോലുള്ള വെല്ലുവിളികൾ അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ മോശം വാർത്തകൾ നൽകാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചില നുറുങ്ങുകൾ നൽകിക്കൊണ്ട് ഞാൻ ഉപസംഹരിച്ചു പക്ഷേ അതേ സമയം മറ്റൊരാളുടെ വരുമാനം നേടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ ഓർമ്മിക്കണം നിങ്ങൾ മോശം വാർത്തകൾ നൽകുമ്പോൾ പോലും ബഹുമാനിക്കുക ഇപ്പോൾ അത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെല്ലുവിളികൾ നോക്കാം തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ചില അവശ്യ ടെലിഫോൺ കഴിവുകളും ഞങ്ങൾ തിരിച്ചറിയുന്നു അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കൂടുതൽ വെല്ലുവിളികളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള കോളർമാർ ഉണ്ടാകാമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഏതുവിധേനയും അവർ ദേഷ്യപ്പെടുന്നു അസന്തുഷ്ടരാണ് നിരാശരാണ് അവർ നിലവിളിക്കുന്നു നിങ്ങൾ അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണയായി നിങ്ങൾ ബുദ്ധിമുട്ടുള്ള കോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ പോയിന്റുകൾ നയതന്ത്രപരമായി മനസ്സിൽ വയ്ക്കുക സമർത്ഥനായിരിക്കുക അതിനാൽ അവരുടെ മനസ്സ് അറിയാൻ ശ്രമിക്കുക തുടർന്ന് വസ്തുതകൾ നൽകുക ആവശ്യമായ വസ്തുതകൾ നൽകുക ഉചിതമായ വസ്തുതകളും തുടർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ബദൽ പരിഹാരങ്ങൾ നൽകുകയും ദയവായി ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ പറയുകയും ചെയ്യുക ഞങ്ങളുടെ നിലപാട് മനസിലാക്കുക ദയവായി ഇത് മനസിലാക്കുക തെറ്റിന് ക്ഷമ ചോദിക്കുന്നു നന്ദി നിങ്ങളുടെ ധാരണ അതിനാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ മൂന്ന് വാക്കുകളും ശൈലികളും വളരെ പ്രധാനമാണ് വെല്ലുവിളികൾ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആളുകൾ ആണെന്ന് നമുക്ക് നോക്കാം നിങ്ങളോട് ആരാണ് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ദേഷ്യം വന്നു ഇപ്പോൾ നിങ്ങൾ ഒരു സംഘർഷം അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഉപയോഗിച്ച മിക്ക കഴിവുകളും ആരെയെങ്കിലും ദേഷ്യത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളവ എന്നാൽ ഫോൺ കോൾ അതിനാൽ കൂടുതൽ പ്രസക്തവും കൂടുതൽ നിർദ്ദിഷ്ടവുമായ ചില കാര്യങ്ങൾ നമുക്ക് അറിയിക്കാം നിങ്ങൾ ഒരു ഫോണിൽ ആ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആരെയെങ്കിലും കൂൾ ആക്കുന്ന കാര്യത്തിൽ ഈ പോയിന്റുകൾ നോക്കൂ മറ്റേയാൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഉടനീളം ശാന്തവും ശാന്തവുമായിരിക്കുക ശബ്ദമോ പൂർണ്ണമായും വിഷമം തോന്നുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശാന്തത പാലിക്കുകയും ശാന്തത പാലിക്കുകയും ചെയ്യുക എല്ലായിടത്തും ആശ്വാസകരമായ നിശബ്ദത ഉപയോഗിക്കുക അതിനാൽ ഇത് ഞാൻ നിങ്ങളോട് സജീവമായ ശ്രവണ ഉപയോഗത്തിൽ പരാമർശിച്ചു ആശ്വാസം പകരുന്ന നിശബ്ദത മറ്റൊരാളെ ആശ്വസിപ്പിക്കുകയും മറ്റൊരാളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നിശബ്ദത തുറക്കാൻ ഒരാൾ മനസിലാക്കൽ താൽക്കാലികമായി ഉപയോഗിക്കുക അതിനാൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നു തുടർന്ന് നിങ്ങളും അതിനോട് പ്രതികരിക്കുകയും പിന്നീട് ചിലപ്പോൾ താൽക്കാലികമായി നിർത്തുകയും ചെയ്യുന്നു അതിനാൽ വീണ്ടും ആ വ്യക്തി തിരിച്ചുവരികയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കുകയോ ചെയ്യുക ചിന്തിക്കുക അതിനാൽ സ്വയം ശേഖരിക്കാൻ തിരികെ വരാൻ ആ വ്യക്തിക്ക് കുറച്ച് സമയം നൽകുക നിങ്ങൾ വെറുതെ സഹായിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കുക സഹായം നൽകാൻ ശ്രമിക്കുക മറ്റേയാൾ ഒരിക്കലും ശബ്ദം ഉയർത്തുന്നില്ലെങ്കിലും നിങ്ങൾ പ്രകോപിതരാണെങ്കിൽപ്പോലും നിങ്ങളുടെ ശബ്ദം ഉയർത്തുക അതിനാൽ ശാന്തത പാലിക്കുക ഒരിക്കലും ശബ്ദം ഉയർത്തരുത് എന്തെങ്കിലും അസൌകര്യമുണ്ടായാൽ ക്ഷമ ചോദിക്കുക അതിനാൽ മറ്റേയാൾ എന്തുതന്നെ വിളിച്ചാലും ദേഷ്യപ്പെട്ട് എന്തെങ്കിലും അസൌകര്യമുണ്ടായാൽ ക്ഷമ ചോദിക്കുക പിന്നെ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയും നിങ്ങൾക്കുവേണ്ടി നിലവിളിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഏറ്റെടുത്ത ഏതെങ്കിലും ഉത്തരവാദിത്തത്തിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കമ്പനി ആ വ്യക്തി അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് പോലും അറിയാതെ അതിനാൽ നിങ്ങൾ തിരിച്ചറിയുന്ന പ്രശ്നം തിരിച്ചറിയാൻ നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കുന്നു വ്യക്തിക്ക് പ്രശ്നം തിരിച്ചറിയുക മാത്രമല്ല നിങ്ങൾ ചിലത് നൽകാനും ശ്രമിക്കുന്നു സർ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രശ്നത്തിനൊപ്പം സാധ്യമായ പരിഹാരവും മാഡം നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരായാലും പ്രശ്നം സൃഷ്ടിക്കുന്നതിന് പ്രാതിനിധ്യം ഉത്തരവാദിയാണ് അതിനാൽ നിങ്ങൾ നഷ്ടപരിഹാരം നൽകാൻ ശ്രമിക്കുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ദേഷ്യപ്പെടുന്ന വ്യക്തിയെ ആശ്വസിപ്പിക്കുന്നു തുടക്കത്തിൽ ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ തുടർന്ന് നഷ്ടം ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ നൽകുന്ന ഏത് തരത്തിലുള്ള സാമ്പത്തിക നഷ്ടപരിഹാരവും ബഹുമാനവും അന്തസ്സും വീണ്ടും പ്രകോപിപ്പിക്കും എന്നാൽ നിങ്ങൾ വീണ്ടും പണം നൽകിയാൽ നഷ്ടം വീണ്ടും സാമ്പത്തിക നഷ്ടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആ വ്യക്തി പകരം ആശ്വാസം ലഭിക്കും എന്നാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് പണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നൽകാം ചില സൌജന്യ ടിക്കറ്റുകൾ സൌജന്യ വിമാന ടിക്കറ്റുകൾ നൽകുന്നതുപോലുള്ള നഷ്ടപരിഹാരം നിങ്ങളുടെ ഉപഭോക്താവ് അതിനാൽ സൌജന്യ സിനിമാ ടിക്കറ്റുകൾ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൌജന്യ ടിക്കറ്റുകൾ പോലും ചെറിയ കാര്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ വ്യക്തിയുടെ കോപം കുറയ്ക്കുന്നു അതിനാൽ സാധ്യമായതെന്തും നഷ്ടപരിഹാരം നൽകുക നിങ്ങൾക്ക് ഒന്നും നൽകാൻ കഴിയില്ല എന്നല്ല നഷ്ടപരിഹാരം പോലും കമ്പനി പോളിസി പോലെയാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാം അധിക്ഷേപകരമായ പദപ്രയോഗങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേത് സ്വീകരിക്കേണ്ടി വന്നേക്കാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത നാല് അക്ഷരങ്ങളുള്ള മോശം വാക്കുകൾ മാത്രമാണ് വ്യക്തി ഉപയോഗിക്കുന്നത് അത് കേൾക്കാൻ നിങ്ങൾ അർഹരല്ലെന്ന് നിങ്ങൾ കരുതുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു നിങ്ങൾ അത് തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വേദനിക്കരുത് അത് വളരെ ചൂടായി എടുക്കരുത് അത് വ്യക്തിപരമായി എടുക്കരുത് അത് മറ്റൊരാളാണ് ആരാണ് വളരെ താഴ്ന്നവൻ നിങ്ങളെപ്പോലുള്ള ഒരാളോട് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അതിനാൽ നിങ്ങൾ താഴാൻ പോകുന്നില്ല അതിനാൽ വേദനിക്കരുത് പ്രൊഫഷണലായും സജീവമായും പ്രവർത്തിക്കുക വീണ്ടും പ്രൊഫഷണലായി പ്രവർത്തിക്കുക സർ മാഡം നിങ്ങൾ നിങ്ങളുടെ പരിധി ലംഘിക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അഭിനന്ദിക്കുന്നു മുതലായവ പക്ഷേ വീണ്ടും അവർ അതേ നിലയിൽ തുടരുകയാണെങ്കിൽ പ്രശ്നം വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുക അതിലേക്ക് തിരികെ പോയി അവരോട് പറയുക അതാണ് പ്രശ്നമെങ്കിൽ പരിഹാരവുമായി പോയി ശ്രമിക്കുക നഷ്ടപരിഹാരം നൽകാൻ ഞാൻ നിങ്ങളെ മനസിലാക്കുന്നതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിളിച്ചയാളോട് അനുകമ്പ കാണിക്കാനും ശ്രമിക്കുന്നു ഈ നിമിഷത്തിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അനുഭവപ്പെടാം പക്ഷേ അതേ സമയം നിങ്ങളുടെ സംഘടനയെയോ കമ്പനിയെയോ നിങ്ങൾ നിരാശപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ ഉടൻ തന്നെ സൈറ്റുകളിൽ ചേരുകയും തുടർന്ന് അതെ എന്ന് പറയുകയും ചെയ്യേണ്ടതില്ല എന്റെ ബോസ് എന്താണ് ചെയ്യുന്നത് അവൻ അത്തരമൊരു പ്രകോപിതനായ ആളാണ് പിന്നെ അവൻ ശരിക്കും ഒരു ഭീകരനായ വ്യക്തിയാണ് അവൻ എല്ലാ ആളുകളോടും ഇത് ചെയ്യുന്നത് തുടരുന്നു നിങ്ങൾ നിങ്ങളുടെ മേലധികാരിയെയോ നിങ്ങളുടെ കമ്പനിയെയോ നിരാശപ്പെടുത്തേണ്ടതില്ല മറിച്ച് നിങ്ങൾ സഹാനുഭൂതിയുള്ളവരാണെന്ന് കാണിക്കുക വിളിച്ചയാൾ കൂടുതൽ സഹായവും മികച്ച പരിഹാരങ്ങളുമായി തിരിച്ചെത്തുന്നു നിങ്ങൾക്ക് സംഭവസ്ഥലത്ത് തന്നെ പരിഹാരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സമയമെടുത്ത് മടങ്ങുകയും തുടർന്ന് കൂടുതൽ നേടുകയും ചെയ്യുക സഹായിക്കുക തുടർന്ന് മികച്ച പരിഹാരങ്ങളുമായി പുറത്തുവരിക നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ തിരികെ വിളിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ എടുക്കുകയും ചെയ്യുന്നു ആ വ്യക്തി സ്വതന്ത്രനായിരിക്കുമ്പോഴെല്ലാം ഫോളോ അപ്പ് ചെയ്യാനും തുടർന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും മുൻകൈയെടുക്കുക നിങ്ങൾ ഒന്നുകിൽ തിരികെ വിളിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബദൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുകയോ ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാൻ വാഗ്ദാനം പാലിക്കുക വാഗ്ദാനം ലംഘിക്കരുത് അവഗണിക്കരുത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് സൂക്ഷിക്കാൻ മറക്കരുത് അതിനാൽ അത് നിങ്ങളുടെ കോളിൻറെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ വികസിപ്പിക്കേണ്ട പ്രധാന കഴിവുകളിലൊന്ന് നിങ്ങളുടെ ശബ്ദം കൈകാര്യം ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ശബ്ദത്തിനും നിങ്ങളുടെ ശബ്ദത്തിൻറെ ഗുണനിലവാരത്തിനും നിങ്ങളുടെ ഫോൺ വിളിച്ചയാൾക്ക് വീണ്ടും നിരവധി കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കഴിയും നിങ്ങൾ ദുഃഖിതനാണോ രോഗിയാണോ ക്ഷീണിതനാണോ നിരാശനാണോ ദേഷ്യത്തിലാണോ ദേഷ്യത്തിലാണോ വിരസതയിലാണോ എന്ന് ശബ്ദത്തിന് വെളിപ്പെടുത്താൻ കഴിയും നിസ്സഹായത സമ്മർദ്ദം അക്ഷമ വാസ്തവത്തിൽ ഇവയെല്ലാം നെഗറ്റീവ് ഗുണങ്ങളാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ ദുഃഖിതനാണ് രോഗിയാണ് ക്ഷീണിതനാണ് നിരാശനാണ് നിങ്ങൾ പങ്കെടുക്കരുതെന്ന് വളരെ നിർദ്ദേശിക്കപ്പെടുന്നു ഏതെങ്കിലും കോളിലേക്ക് നിങ്ങൾ ഒരു കോൾ ചെയ്യുന്നത് ഒഴിവാക്കണം ആരെങ്കിലും നിങ്ങളുടെ കോൾ എടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ആ വ്യക്തിക്ക് നൽകുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും നിങ്ങൾ സമ്മർദ്ദത്തിലാകുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള സമയവും നിങ്ങൾ കാണിക്കാനോ വെൻ്റ് ചെയ്യാനോ സാധ്യതയുള്ള സമയവുമാണ് നിങ്ങളുടെ കോപം ആരോടെങ്കിലും പ്രകടിപ്പിക്കുക മറ്റേയാൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പകർന്നു മറ്റേയാൾ ശരിയായ ചട്ടക്കൂടിലല്ല അത് സ്വീകരിക്കാൻ മനസ്സ് അതിനാൽ അത് നിങ്ങളുടെ കമ്പനി കെട്ടിപ്പടുത്ത ഏതെങ്കിലും തരത്തിലുള്ള നന്മയെ തകർക്കുന്നതിൽ അവസാനിക്കുന്നു പതിറ്റാണ്ടുകളായി നിങ്ങളുടെ ശബ്ദത്തിന് നിങ്ങൾ സന്തുഷ്ടരാണോ സഹായകരമാണോ പുഞ്ചിരിക്കുകയാണോ സന്തോഷവാനാണോ എന്ന് സൂചിപ്പിക്കാനും കഴിയും പിന്തുണയ്ക്കുന്ന ശ്രദ്ധയുള്ള സഹാനുഭൂതിയുള്ള പരിഗണനയുള്ള സൌഹാർദ്ദപരമായ ഇപ്പോൾ ആരെയെങ്കിലും വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഗുണങ്ങളോ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയോ ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ഏത് വിടവും നികത്താൻ പോകുന്ന ഫോൺ ഓർഗനൈസേഷനുകൾ തമ്മിലുള്ള ആശയവിനിമയം നിങ്ങൾ ചിന്തിക്കുന്ന മാനസികാവസ്ഥയുടെ ശരിയായ ചട്ടക്കൂടാണ് സന്തോഷവും സഹായവും പുഞ്ചിരിയും സന്തോഷവും പിന്തുണയും ശ്രദ്ധയും സഹാനുഭൂതിയും ഉണ്ടായിരിക്കണം കരുതലും സൌഹൃദവും ഇപ്പോൾ ശബ്ദത്തെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ ഘടകം പലർക്കും തങ്ങൾ ഉച്ചത്തിലാണെന്ന് അറിയില്ല ശബ്ദങ്ങൾ സംസാരിക്കുമ്പോൾ ഉച്ചഭാഷിണി ആവശ്യമില്ലെന്ന് പലർക്കും അറിയില്ല മറ്റ് സ്വീകർത്താക്കൾ അവരുടെ കോൾ സ്പീക്കറിൽ വെക്കേണ്ടതില്ല അതിനാൽ മറ്റുള്ളവർക്ക് അവരുടെ വാക്കുകൾ കേൾക്കാൻ കഴിയും ശബ്ദം വളരെ ഉച്ചത്തിലാണ് അവർ ഹാളിലാണെങ്കിൽ ആർക്കും കേൾക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഒരാളാണെങ്കിൽ അവയിൽ ഉച്ചത്തിൽ നിങ്ങളുടെ ശബ്ദം കുറയ്ക്കേണ്ടത് പ്രധാനമാണ് അത് കാരണമാകുന്നു അത് എത്ര ഉച്ചത്തിലായാലും അത് അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് മറ്റൊരാൾക്ക് ഇത് സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് ഒരു ശബ്ദമലിനീകരണം പോലെയാണ് മറ്റൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട് അത് മൃദുവാകുമ്പോൾ മറ്റേയാൾ ശാന്തനാകും തുടർന്ന് മറ്റേയാൾ സാധാരണയായി നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഒരു സുഖകരമായ തലത്തിൽ എന്നാൽ മറുവശത്ത് പലർക്കും അത് അറിയില്ല അവരുടെ ശബ്ദങ്ങൾ ദുർബലമാണ് അവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാത്തത്ര ദുർബലമാണ് അവർക്ക് സംസാരിക്കേണ്ടതുണ്ട് ഉറക്കെ അവർ പരിശീലിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ വളരെ ഉച്ചത്തിലാണോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ദുർബലരാണെങ്കിലും നിങ്ങളുടെ ശബ്ദം എങ്ങനെ കൈകാര്യം ചെയ്യും അത് നിങ്ങൾ പരിശീലിക്കുന്നതിലൂടെ മാത്രമാണ് പരിശീലനത്തിൽ ആത്മവിശ്വാസം നേടും നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുകയും അത് കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെ ഒന്നുകിൽ നിങ്ങൾ അത് ഒരു ടേപ്പ് റെക്കോർഡറിൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക ഇക്കാലത്ത് നിങ്ങൾക്ക് റെക്കോർഡിംഗ് സൌകര്യവും ഉണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യുന്നു നിങ്ങളുടെ ഫോട്ടോ റെക്കോർഡ് ഇല്ലാതെ നിങ്ങളുടെ ശബ്ദം മാത്രം റെക്കോർഡ് ചെയ്യുന്നു വീഡിയോയോടൊപ്പം നിങ്ങളുടെ ശബ്ദത്തിന്റെ ഗുണനിലവാരം എങ്ങനെയാണെന്ന് പരിശോധിക്കുക ആരോടെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് നിങ്ങളുടെ ശബ്ദത്തിൽ സ്വയം സുഖപ്പെടുത്തുക നിങ്ങളുടെ ശബ്ദം വേണ്ടത്ര കേൾക്കുന്നുണ്ടോ അതോ വളരെ ഉച്ചത്തിലാണോ അതോ വളരെ താഴ്ന്നതാണോ അതിനാൽ എങ്ങനെ എന്ന് തീരുമാനിക്കുക നിങ്ങളുടെ വോയ്സ് റെക്കോർഡ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾ ഉപയോഗിക്കുന്ന ചില പ്രധാന വാക്കുകൾ വീണ്ടും വീണ്ടും പരിശീലിക്കുക നിങ്ങൾ സോറി എന്ന് പറയുന്ന രീതിയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ചില ആളുകൾ സോറി എന്ന് പറയുന്നു പക്ഷേ അപ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല അത് നിങ്ങളുടെ ലിപ് സർവീസിന് തുല്യമാണ് അതിനാൽ പറയാൻ ശ്രമിക്കുക ക്ഷമിക്കണം അതിനാൽ നിങ്ങൾ അത് നന്ദിയോടെ പറയുമ്പോൾ മറ്റേയാൾക്ക് നന്ദി തോന്നുന്നു നിങ്ങൾ ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ നന്ദി പറയുമ്പോഴോ പോലെ തന്നെ നിങ്ങൾ അതിനാൽ നിങ്ങൾക്ക് സ്വാഗതം എന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ വീണ്ടും ഒരുതരം ഊഷ്മളതയോടെ ഇപ്പോൾ ഇത് ഊഷ്മളതയോടെ പരിശീലിക്കുക തുടർന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ വളരെ മോശം വാർത്തയാണ് അപ്പോൾ നിങ്ങളുടെ ക്ഷമാപണം വളരെ സഹാനുഭൂതിയുള്ളതായിരിക്കണം അതിനാൽ അത് കാണിക്കണം നിങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്ന മറ്റൊരു വ്യക്തി അതിനാൽ നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കാണാൻ ശ്രമിക്കുക ഈ പൊതുവായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻറെ കാര്യത്തിൽ ശബ്ദം പ്രത്യേകിച്ച് ഒരു കോൾ ചെയ്യുന്നതിൽ മര്യാദയുള്ളവ ഞാൻ ചെയ്തതുപോലെ ഇതിനൊപ്പം നിങ്ങൾ അറിയേണ്ട മറ്റ് അവശ്യ കഴിവുകളും ഉണ്ട് സജീവമായ ശ്രവണ വിഭാഗത്തിൽ നിങ്ങൾ ഒരു സജീവ ശ്രോതാവായിരിക്കണം ഞാൻ ഊന്നിപ്പറയുന്നു ഇത് വീണ്ടും വീണ്ടും പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാസ്തവത്തിൽ ടെലിഫോൺ വൈദഗ്ദ്ധ്യം ഇത് സജീവമായ ശ്രവണ വൈദഗ്ധ്യത്തിന്റെ ഭാഗമാണ് ഇത് സംസാരിക്കുന്നതിനെക്കുറിച്ചല്ല കേൾക്കുന്നതിനെക്കുറിച്ചാണ് അതിനാൽ ശബ്ദങ്ങൾ കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ പങ്കാളിത്തം കാണിക്കുക അതിനാൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഉപയോഗിക്കുക മറ്റേയാൾ യഥാർത്ഥത്തിൽ നിങ്ങളെ നോക്കുന്നില്ല നിങ്ങൾ തല കുലുക്കുകയാണോ എന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല നിങ്ങളുടെ തല കുലുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തല കുലുക്കുകയാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരാളുമായി സംസാരിക്കുന്നത് മറ്റേയാൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല അതിനാൽ നോഡുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ചിലപ്പോഴൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കാണുന്നു എന്ന് നിങ്ങൾക്ക് പറയാനോ പറയാനോ കഴിയും ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ഫോൺ പോയി അല്ലെങ്കിൽ മറ്റേയാൾ വെറുതെ പോയി എന്ന് എനിക്ക് തോന്നുന്നു ഫോൺ വിളിച്ച് എവിടെയെങ്കിലും പോയി പിന്നെ എനിക്ക് മറ്റേ വ്യക്തിയോട് ആവർത്തിച്ച് ചോദിക്കേണ്ടതുണ്ട് ഹേയ് നിങ്ങൾ അവിടെ ഹലോ കേൾക്കുന്നു അപ്പോൾ അവർ പറയും അതെ അതെ ഞാൻ അവിടെയുണ്ട് ഞാൻ കേൾക്കുന്നു ഇപ്പോൾ ഇത് മറ്റേയാൾ നൽകേണ്ട ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ കാര്യമാണ് ആശയവിനിമയ പ്രക്രിയയിൽ ആ വ്യക്തി വളരെയധികം പങ്കെടുക്കുന്നുവെന്ന് നിങ്ങൾ സൂചന നൽകുന്നു ഇത് ഫോണിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് വ്യത്യസ്തമായി പറഞ്ഞ മറ്റൊരു കാര്യം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ എന്നാൽ മൊത്തത്തിൽ നിങ്ങൾ സന്തോഷവാനായിരിക്കണമെന്ന് ഓർക്കുക നിങ്ങൾ ഒരു കോൾ ശബ്ദമുണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് സുഖം തോന്നുമ്പോഴും നിങ്ങൾക്ക് സുഖം തോന്നുന്നു നല്ല ശബ്ദമുണ്ടാക്കുന്നതിനാൽ നിങ്ങൾക്ക് റിസീവറിനും സുഖം തോന്നും റിസീവർ ഫോൺ റിസീവർ സ്ഥാപിക്കുന്നു അതായത് എപ്പോൾ ഒരു കോൾ ചെയ്ത വ്യക്തിയാണ് അവൻ അല്ലെങ്കിൽ അവൾ കോൾ ചെയ്തതിന് ശേഷം ഫോൺ സൂക്ഷിക്കുന്നു അത് നല്ല വികാരത്തോടെ സൂക്ഷിക്കണം അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ അവർക്ക് ആ നല്ല വികാരം നൽകേണ്ടത് പ്രധാനമാണ് വളരെ മോശം മാനസികാവസ്ഥയിൽ നിന്നാണ് അവർ ആരംഭിച്ചത് ഒരുപക്ഷേ അവർ നിങ്ങളെ വിളിച്ചപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കാം അവർ ദേഷ്യപ്പെട്ടു പക്ഷേ അവസാനം അവർക്ക് സുഖം തോന്നുന്നു അവർക്ക് ആശ്വാസം തോന്നുന്നു റിസീവർ ഫോണിൽ വെക്കുക നിങ്ങളുടെ വിളിച്ചയാളെ അറിയുക അതിനാൽ ആരെങ്കിലും നിങ്ങളെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ കുറച്ച് ഗൃഹപാഠം ചെയ്യുക എന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ കോളറുടെ വിശദാംശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക കാരണം പ്രായം അനുസരിച്ച് ആ വ്യക്തി മുതിർന്നയാളാണോ അതോ മുതിർന്നയാളാണോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പദവി തിരിച്ചറിയുകയും വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയുടെ മാനസികാവസ്ഥ തിരിച്ചറിയുകയും ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് കാണിക്കേണ്ട ബഹുമാനത്തിന്റെ നിലവാരം ഉയർത്താൻ കഴിയും മറ്റൊരാൾ ആ വ്യക്തിക്ക് ഡോക്ടർ പ്രൊഫസർ സർ തുടങ്ങിയ പദവികൾ ഉണ്ടെങ്കിൽ മിസ്സ് അല്ലെങ്കിൽ മിസ്സ് അതിനാൽ നിങ്ങൾ ഈ ശീർഷകങ്ങൾ വിളിച്ചയാളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കേണ്ടതുണ്ട് അങ്ങനെ ആ വ്യക്തി അംഗീകരിക്കപ്പെട്ടതായി തോന്നുകയും വിളിക്കുന്ന ഏതൊരാളും തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണിത് ഒടുവിൽ നിങ്ങളിൽ ചിലർ നിങ്ങൾ ആയിരിക്കുന്നതിനാൽ ചില കോളുകൾ വിളിക്കുന്നില്ല ആരെയെങ്കിലും വിളിച്ച് ചില വാർത്തകൾ പങ്കിടാൻ ഭയപ്പെടുന്നു ചിലപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കുന്നു കാരണം നിങ്ങൾക്ക് ഒരുതരം ഭയമുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ തുക ആ പോരാട്ടം അല്ലെങ്കിൽ പറക്കൽ പ്രതികരണം സജീവമാക്കുന്നതിനും തുടർന്ന് നിങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നതിനും ഭയം ആവശ്യമാണ് ഇത് നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ അതിൽ നിന്ന് വരുന്ന ഊർജ്ജം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രം ബുദ്ധിമുട്ടുള്ള ആ വ്യക്തിയുമായി സംസാരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ ഭയം അവരുമായി സംസാരിക്കുക അസുഖകരമായ വ്യക്തി ആ ദേഷ്യമുള്ള ഉപഭോക്താവിനോട് സംസാരിക്കുകയും ഭയം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നുറുങ്ങുകൾ ഉപയോഗിച്ച് ഈ രീതിയിൽ സംസാരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കും നിങ്ങൾ ദേഷ്യമുള്ള വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് കൈകാര്യം ചെയ്യും തുടർന്ന് ആളുകൾ ചെയ്യും ദേഷ്യമുള്ള ആരോടും സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയായി നിങ്ങളെ കൊണ്ടുവരാൻ മുന്നോട്ട് വരിക ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും സംഘർഷങ്ങൾ പരിഹരിക്കുകയും തുടർന്ന് മറ്റൊരാൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക നിങ്ങളുടെ സംസാരത്തിൻറെ അവസാനത്തിൽ സന്തോഷമുണ്ട് അതിനാൽ ഈ കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കരുത് അസുഖകരമോ അസുഖകരമോ ആയിരിക്കുമ്പോൾ അത് ലജ്ജാകരമാണെന്ന് നിങ്ങൾ കരുതുമ്പോൾ കോളുകൾ വിളിക്കാൻ ഭയപ്പെടുന്നു ഭയപ്പെടുത്തുന്ന വ്യക്തിത്വം കാരണം നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുമ്പോൾ അവൻ ഒരു ഉയർന്ന അധികാരിയാണെന്നോ അല്ലെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നോ ഉള്ള വസ്തുത നിങ്ങൾക്ക് അതിനാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോംപ്ലക്സുകൾ എന്നാൽ ശ്രമിക്കുക മര്യാദയുള്ളവരായിരിക്കുക എന്ന പരിശീലനത്തിലൂടെ മാത്രമേ ആത്മവിശ്വാസവും ആത്മവിശ്വാസവും കൊണ്ട് ആ ഭയത്തെ മാറ്റിസ്ഥാപിക്കുകയുള്ളൂ മൊത്തത്തിൽ മര്യാദയുള്ളവരായിരിക്കുക തുടർന്ന് നിങ്ങൾ മര്യാദയുള്ളവരായിരിക്കുമ്പോൾ ദയവായി എല്ലാവർക്കും നന്ദി പറയുക മര്യാദയുള്ള ചില പദപ്രയോഗങ്ങൾ പ്രത്യേകിച്ച് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നവർ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കട്ടെ എനിക്ക് സംസാരിക്കാമോ അതിനാൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയും ഞാൻ യഥാർത്ഥത്തിൽ പ്രവർത്തനപരമാണ് രണ്ടും ഒരു തരത്തിലുള്ളതാണ് അഭ്യർത്ഥിക്കുന്നു പക്ഷേ ഞാൻ ശരിക്കും മാന്യനായിരിക്കട്ടെ എനിക്ക് ഒരു മുതിർന്ന വ്യക്തിയെപ്പോലെയാകാൻ കഴിയുമോ ഇത് എല്ലായ്പ്പോഴും സുരക്ഷിതമാണെന്ന് ഒരു ജൂനിയറിനോട് ചോദിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാം അതിനാൽ നിങ്ങൾ ഈ വാക്കുകൾ നോക്കുകയാണെങ്കിൽപ്പോലും എപ്പോൾ വരുമെന്ന സ്വര വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ മേ ഐ കാൻ ഐ എന്നിവ ഉപയോഗിക്കാം കാൻ ഐ എന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്നതുപോലുള്ള സാധ്യതയാണ് എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു അതിനാൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എനിക്ക് വ്യത്യാസം മനസിലാക്കാം അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എനിക്കായി ഇത് ചെയ്യുമോ നിങ്ങൾ എനിക്ക് ഇത് ചെയ്യാമോ വീണ്ടും തിരഞ്ഞെടുക്കുക നിങ്ങൾ മിക്കപ്പോഴും ദയവായി എനിക്കുവേണ്ടി ഇത് ചെയ്യുമോ ദയവായി നാളെ 9 മണിക്ക് ഡയറക്ടറുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിക്കുക അതിനാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മര്യാദയുള്ള അടയാളങ്ങളുടെ കാര്യത്തിലും ഇത് മാന്യമായി ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുമോ ഇപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ സൌമ്യനാണ് മര്യാദയുടെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും സൌമ്യനാണോ നിങ്ങൾക്ക് കഴിയും അതിനാൽ ടോൺ കുറയ്ക്കാൻ നിങ്ങൾക്ക് വീണ്ടും ചേർക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഇത് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ ദയവായി ഇത് എനിക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലായ്പ്പോഴും ഈ മാന്യമായ അടയാളങ്ങൾ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞു ക്ഷമിക്കണം നന്ദി സ്വാഗതം വാസ്തവത്തിൽ നിങ്ങൾ ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് പറയാൻ ശ്രമിക്കുന്നു വ്യത്യസ്തമായ രീതിയിൽ അത് റെക്കോർഡ് ചെയ്യുകയും നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കേൾക്കുന്നുവെന്ന് കാണുകയും ചെയ്യുക നിങ്ങൾ മാപ്പ് പറയുകയാണെന്ന് ശരിക്കും തോന്നുന്നു അവസാനമായി എന്നാൽ ഏറ്റവും കുറഞ്ഞത് പദപ്രയോഗങ്ങൾ ഒഴിവാക്കുക അതിനാൽ പദപ്രയോഗങ്ങൾ അറിയപ്പെടുന്ന വാക്കുകൾ മാത്രമാണ് പത്രപ്രവർത്തകരെപ്പോലുള്ള വളരെ ചെറിയ കൂട്ടം ആളുകളോട് അവർ അവരുടെ സ്വന്തം പദപ്രയോഗങ്ങളും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നു ശാസ്ത്ര ആളുകൾ അവരുടെ സ്വന്തം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു ഡോക്ടർമാർ അവരുടെ സ്വന്തം പ്രത്യേക വാക്കുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പുമായി സംസാരിക്കുകയാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതും സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് ലളിതമായ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കഴിയുന്നത്ര സ്വാഭാവികവും സ്വാഭാവികവുമായിരിക്കാൻ ശ്രമിക്കുക ഒരു ബാധിത സ്വരം കൃത്രിമ രീതിയിൽ സംസാരിക്കരുത് സ്വാഭാവികമായിരിക്കുക ഔപചാരികമായവയിൽ പോലും നിങ്ങൾക്ക് സ്വാഭാവികമായിരിക്കാം അത് അൽപ്പം അനൌപചാരികമായി തോന്നാം പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആവേശഭരിതനാണെന്ന ചിത്രം നിങ്ങൾക്ക് നൽകുന്നതിനുപകരം അതിനാൽ അത് കാണിക്കുന്നതാണ് നല്ലത് നിങ്ങൾ അൽപ്പം അനൌപചാരികവും സ്വാഭാവികവും സ്വാഭാവികവും ശാന്തവുമാണെന്ന് തോന്നുന്നു അതിനാൽ മറ്റേത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തിക്ക് സൌഹാർദ്ദവും ആശ്വാസവും അനുഭവപ്പെടുന്നു എല്ലാ ഫോണുകളിലെയും പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണരുത് കോളുകൾ നിങ്ങൾക്ക് സന്തോഷകരമായി അവസാനിക്കാൻ പോകുന്നു എന്നിരുന്നാലും നിങ്ങൾ അത് മികച്ചതാക്കാൻ ശ്രമിക്കും മറ്റേ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നശിപ്പിക്കാൻ കഴിയും ആ ദിവസത്തെ നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും മാനസികാവസ്ഥ ചില വ്യക്തികൾ നിങ്ങളുടെ ആഴ്ചയെ പൂർണ്ണമായും നശിപ്പിക്കും നിങ്ങൾക്ക് പൂർണ്ണമായും സമ്മർദ്ദത്തിലാകാൻ കഴിയുന്ന വിധത്തിൽ ചില ആളുകൾ നിങ്ങളോട് സംസാരിച്ചേക്കാം ഒരു ക്രെഡിറ്റ് കാർഡ് വെണ്ടറിൽ നിന്ന് വിളിക്കുക തുടർന്ന് ചിലപ്പോൾ നിങ്ങൾ ദീർഘകാലമായി പണമടച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം അടയ്ക്കുക തുടർന്ന് കോളുകൾ വരുന്നു തുടർന്ന് നിങ്ങളെ അധിക്ഷേപിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല ആ നിമിഷം അതിനാൽ ഇത്തരത്തിലുള്ള കോളുകൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഞരമ്പുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയും മറുവശത്ത് നിങ്ങൾ ഒരിക്കലും മര്യാദയോടെ ആരംഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും അത് എങ്ങനെ പോകുന്നുവെന്ന് അറിയാമെങ്കിലും പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ മറ്റൊരാളുടെ സ്വഭാവത്താൽ മാത്രമല്ല നിങ്ങൾക്ക് ആകസ്മികത നൽകാനും കഴിയും സാങ്കേതിക ലഘുഭക്ഷണങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുക അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഒരു പ്രധാന കോൾ ചാർജ് തീർന്നുപോകുന്ന സമയമായിരിക്കരുത് ഇത് കാലതാമസം ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന തെറ്റിദ്ധാരണകളിൽ ദീർഘനേരം നിൽക്കുന്നത് നിങ്ങൾ കാരണമല്ല മറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഭാഷയുടെ ഉപയോഗമോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ആകാം ഒരുതരം പ്രശ്നം പക്ഷേ ഏറ്റവും മോശം സാഹചര്യം പൊട്ടിപ്പുറപ്പെടുമെന്ന് വീണ്ടും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മറ്റേ വ്യക്തിയുടെ വികാരം അതിനാൽ നിങ്ങൾ അശ്രദ്ധമായി എന്തോ പറഞ്ഞു മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശ്യമല്ല മറിച്ച് മറ്റേയാൾ അത് തെറ്റായി എടുക്കുകയും തുടർന്ന് വളരെ മര്യാദയുള്ള രീതിയിലാണ് സംഭാഷണം ആരംഭിച്ചതെങ്കിലും ദേഷ്യത്തോടെ നിങ്ങളോട് നിലവിളിക്കാൻ തുടങ്ങി തുടക്കത്തിൽ തന്നെ രീതി അതിനാൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളുകളിൽ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുകയും തയ്യാറായിരിക്കുകയും ചെയ്യുക പറഞ്ഞതുപോലെ അതിനായി അതിനാൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകേണ്ടത് മുൻകൂട്ടി ആയുധമെടുക്കുക എന്നതാണ് അതിനാൽ ഈ വ്യക്തി തീർച്ചയായും എന്തെങ്കിലും ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഒരു പ്രശ്നം സൃഷ്ടിക്കും അതിനാൽ നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ആ വിവരങ്ങൾ നിങ്ങളുടെ മേശപ്പുറത്ത് വയ്ക്കുക അതിനാൽ നിങ്ങൾ അറിയുമ്പോൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തവും ശാന്തവുമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ആത്മവിശ്വാസമുണ്ടാകും ഞാൻ അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് അവസാനത്തെ രണ്ട് പോയിന്റുകൾ ഓരോ കോളും ഒരു അവസരമാണെന്ന് ഓർക്കുക നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുകയും തീർച്ചയായും നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും നിങ്ങളുടെ പ്രതിച്ഛായയും വികസിപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ സംഘടന അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ പ്രതിച്ഛായ നിങ്ങൾ ഒരു ചീത്ത ഉണ്ടാക്കുന്നു ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓർഗനൈസേഷനെയോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആളുകളെയോ പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ അവർ നിങ്ങളെക്കുറിച്ച് മോശമായി പറയുക മാത്രമല്ല സ്ഥാപനം മോശമാണെന്ന് അവർ കരുതുകയും ചെയ്യും നിങ്ങളെ നിയമിച്ച സംഘടനയും വളരെ മോശമാണ് എന്നാൽ മറുവശത്ത് ഓർക്കുക ഒരു നല്ല വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വവും പ്രതിച്ഛായയും മെച്ചപ്പെടുത്താനുള്ള അവസരമാണിത് ഒരു കോൾ ചെയ്ത മറ്റൊരാളുമായുള്ള ബന്ധം ഒരു നല്ല കോൾ ചെയ്യുക അത് നന്നായി വിട്ടേക്കുക അതിന്റെ അവസാനം തോന്നുന്നത് ഒരു നല്ല ബന്ധം കെട്ടിപ്പടുക്കുന്നു അതിനാൽ അത് വീണ്ടും ഇമേജ് വർദ്ധിപ്പിക്കും നിങ്ങളുടെ സംഘടനയും നിങ്ങളും അത് വ്യക്തിത്വം വികസിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും ഞാൻ ഇത് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം ടെലിഫോൺ കഴിവുകളെക്കുറിച്ചുള്ള പൂർണ്ണ മൊഡ്യൂളും തുടർന്ന് ഏകദേശം മൂന്ന് മൊഡ്യൂളുകളും ഞാൻ ഇതിനായി ചെലവഴിച്ചു അവസാനത്തേത് എന്നാൽ ഏറ്റവും കുറഞ്ഞതല്ല ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ ആയിരിക്കണമെന്ന് ഞാൻ പറയും ആരോടെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരുതരം സ്വയം അവബോധത്തോടെയാണ് ഞാൻ ഇത് ആരംഭിച്ചതെന്ന് ഓർക്കുക ചോദ്യങ്ങൾ സ്വയം പ്രതിഫലിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കുന്ന വ്യക്തി ആരാണ് അതിനാൽ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കണം എല്ലാവരും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല കോളർ ഐഡിയിൽ നിങ്ങളുടെ കോൾ കാണുമ്പോൾ ആളുകൾ നിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കരുത് അതിനാൽ ഞാൻ വീട്ടിൽ ഇല്ലെന്ന് ഈ വ്യക്തിയോട് പറയണമെന്ന് അവർ കുട്ടികളോട് പറയുന്നു അതിനാൽ ഞാൻ ഞാൻ ഓഫീസിൽ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും എന്റെ മൊബൈൽ നമ്പർ ഈ വ്യക്തിക്ക് നൽകരുത് ആ വ്യക്തിയായി മാറരുത് ആളുകൾ നിങ്ങളെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അവർ നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ നീണ്ട അശ്രദ്ധമായ സംസാരം നിങ്ങൾ ആണെന്നതാണ് വസ്തുത അതിനാൽ വിരസവും പിന്നെ മറ്റുള്ളവരുടെ സമയത്തിലേക്ക് നുഴഞ്ഞുകയറുകയും പിന്നെ ഒരു പരിഗണനയും കാണിക്കാതെ നിങ്ങൾ സഹാനുഭൂതിയുള്ളവരാണ് അതിനാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കോൾ ചെയ്യുമ്പോൾ അഹങ്കാരിയും സ്വാർത്ഥതയും മറ്റേയാൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ബെക്കിലും കോളിലും ഉണ്ടായിരിക്കണം ഇപ്പോൾ ആരെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഒഴിവാക്കുന്നതെന്ന് ഈ കാര്യങ്ങൾ ചോദിക്കുക സാഹചര്യം നുറുങ്ങുകൾ പിന്തുടരുകയും ആരെങ്കിലും ആഗ്രഹിക്കുന്ന വ്യക്തിയായി പതുക്കെ സ്വയം വികസിപ്പിക്കുകയും ചെയ്യുന്നു ഫോണിലോ നേരിട്ടോ സംസാരിക്കണമെന്നില്ല ഇത് ഒരു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടുപിടുത്തമെന്ന നിലയിൽ ഈ ടെലിഫോണിന്റെ പരിമിതി സംഗീതത്തിൽ നിന്നുള്ള ഈ പ്രശസ്തമായ ഉദ്ധരണി നോക്കുക പ്രതിഭയായ എ ആർ റഹ്മാൻ ആരോ അഭിമുഖം നടത്തിയപ്പോൾ അതിനാൽ അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് ഞാൻ പലപ്പോഴും ജോലി ചെയ്യുന്ന സംഗീതത്തിന് പകലും രാത്രിയും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ സംഗീതത്തിനുള്ള ഉപയോഗങ്ങൾ ഫോൺ കോളുകളില്ലാത്ത രാത്രി എന്നെ അസ്വസ്ഥനാക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു നല്ല വ്യക്തിയോ ചീത്തയോ ആകട്ടെ നിങ്ങളുടെ ശബ്ദം എല്ലാം നല്ലതാണോ അല്ലയോ എ റഹ്മാനെപ്പോലുള്ള ആളുകളുണ്ട് അവരുടെ സൃഷ്ടിപരമായ കഴിവുകളെ ശല്യപ്പെടുത്തുന്നതിനായി ഫോൺ കോളുകൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഫോൺ കോളുകൾ അങ്ങനെയാകുമോ ശല്യം ആരുടെയെങ്കിലും സൃഷ്ടിപരമായ ഒഴുക്കിനെ ശരിക്കും ബാധിക്കുമോ എന്ന് ചിന്തിക്കുക ഇതാണ് വിഷയം അതിൽ ഞാൻ അടുത്ത സെറ്റ് മൊഡ്യൂളുകൾ ആരംഭിക്കാൻ പോകുന്നു എങ്ങനെ സാങ്കേതികവിദ്യ എന്ന് കരുതപ്പെടുന്നു യഥാർത്ഥത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നത് യഥാർത്ഥത്തിൽ പരിസ്ഥിതിക്ക് മാത്രമല്ല വളരെയധികം ദോഷം വരുത്തുന്നു എന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിനും അത് മെച്ചപ്പെടുത്തലിന്റെ പേരിൽ യഥാർത്ഥത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നതിനും നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൻറെയും വികാസത്തിൻറെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിനാൽ ഈ കുറിപ്പിലൂടെ ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ കോഴ്സിന്റെയും പകുതിയോളം വരും ഇത് അതിനാൽ ബാക്കിയുള്ള പകുതി ഇതുപോലെ ആവേശകരമാണെന്ന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു